ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള

അതിനാൽ സെൻസറുകളുടെ വ്യത്യസ്ത വശങ്ങളുണ്ട് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് പരിസ്ഥിതിയെക്കുറിച്ചോ നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ വിവരത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ഉപകരണത്തെക്കുറിച്ചോ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കൂട്ടം സെൻസറുകൾ നമ്മുടെ പക്കലുണ്ട് ബാക്ക്എൻഡിൽ വ്യാപനത്തിന്റെ എണ്ണം നമുക്ക് ചുറ്റുമുണ്ടെന്ന് അത് പറയുന്നു അതിനാൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഒരു സംയോജനം ഉണ്ടോ അല്ലെങ്കിൽ ഈ സെൻസറുകളെ വളരെ ഫലപ്രദമായ ഒരു സെൻസർ ക്ലൌഡിനെ അനുകരിക്കാൻ ഇത്തരത്തിലുള്ള സർവ്വവ്യാപിയായ സെൻസറിനോ ധാരാളം സെൻസറുകൾക്കോ കഴിയും നമ്മൾ കണ്ടതുപോലെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവലോകനമാണിത് അതിനാൽ സെൻസിംഗ് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നു അതിനാൽ 2 സാങ്കേതികവിദ്യകൾ അങ്ങേയറ്റം വ്യാപകമാവുകയും അവ രണ്ടും ക്രമേണ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു

വലിയ ഡാറ്റാ എന്നത് അടുത്തതായി നമ്മൾ ഒരു പയനിയർ പേപ്പറിൽ പരാമർശിച്ചു അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത വയർലെസ് സെൻസർ നെറ്റ്വർക്ക് തള്ളുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഭൌതിക അന്തരീക്ഷം എന്തുതന്നെയായാലും അത് നമ്മുടെ ഡിജിറ്റൽ ലോകവുമായി ഒപ്പിയെടുക്കുന്നു അതിനാൽ സെൻസർ നോഡുകൾ ചെറുതും ഊർജ്ജം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമാണ് അത് ഒന്നിലധികം പ്രവർത്തനങ്ങൾ നൽകുന്നു സാധാരണയായി അവ ചെറുതും ഊർജ്ജം കൂടിയതും വിലകൂടിയതും ആണ് അതിനാൽ വിലയേറിയതും സെൻസിംഗ് ശേഷി പോലുള്ള വ്യത്യസ്ത തരം പ്രവർത്തനപരവുമായതിനാൽ ചിലപ്പോൾ ഇതിന് പ്രോസസ്സിംഗ് ശേഷി മെമ്മറി അല്ലെങ്കിൽ മറ്റ് നോഡുകളിലേക്ക് തള്ളുകയും ചെയ്യുന്നു പല ആപ്ലിക്കേഷനുകളും ഉപയോഗപ്രദമാണ് കൂടാതെ പരിസ്ഥിതി ആരോഗ്യ പരിപാലന വിദ്യാഭ്യാസ പ്രതിരോധങ്ങൾക്കായി സ്മാർട്ട്ഫോണുകളോ എന്തെങ്കിലും തരത്തിലുള്ള സംവേദനവും നിരീക്ഷണവും ആവശ്യമുള്ള സംവിധാനങ്ങളോ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ ഇവിടെ കാണുന്നത് സെൻസർ നോഡുകളുടെ ബാറ്ററി ഉണ്ട് ഇവ ഒരു പ്രത്യേക രീതിയിൽ ഓർഗനൈസുചെയ്തിരിക്കുന്നു എന്നാൽ അവ തമ്മിൽ പുനസംഘടിപ്പിക്കാനും കഴിയും ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചില ഗേറ്റ്വേകളുണ്ട് ഇത് വനഭൂമി പരിപാലന സംവിധാനങ്ങൾ ആകാം നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ ആകാം അങ്ങനെ വ്യത്യസ്തമായ ഏതുതരം സംവിധാനങ്ങളും ആകാം അതിനാൽ ഇത് പോലുള്ള വ്യത്യസ്ത വശങ്ങളിൽ അപ്ലിക്കേഷൻ ഒരു തീരുമാനം എടുക്കുന്നുവെന്നും പറയുക അതിനാൽ സെൻസർ നെറ്റ്വർക്കുകളിൽ മാറ്റുന്നത് പോലും വ്യത്യസ്തമാണ് അതിനാൽ വ്യത്യസ്ത സെൻസർ നെറ്റ്വർക്കുകൾ എങ്ങനെ പങ്കിടാമെന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നില്ല അതിനാൽ ഡാറ്റ ശേഖരിക്കുന്നതിന് എനിക്ക് ഒരു കൂട്ടം സെൻസറുകളും അവ എവിടെയെങ്കിലും വയ്ക്കുന്നതിന് മറ്റൊരു കൂട്ടം സെൻസറുകളും ഉണ്ട് അവ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് അതിനാൽ അത് നടപ്പിലാക്കേണ്ടതുണ്ട് വലിയ തോതിലുള്ള അപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് സെൻസറുകളിൽ മതിയായ കമ്പ്യൂട്ടേഷണൽ ഉണ്ടെങ്കിൽ ഉടനടി വിന്യാസവും പൊരുത്തപ്പെടുത്തലും ഒരു വെല്ലുവിളിയായി മാറുന്നു അതിനാൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ഇവയാണ് ഇതുപയോഗിച്ച് ഈ തരത്തിലുള്ള സെൻസർ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ ക്ലൌഡിന്റെ ചെയ്യുന്നുവെന്ന് മാത്രമല്ല ക്ലൌഡിന്റെ യഥാർത്ഥ ശക്തി സമൂഹം വലിയ തോതിൽ പ്രകടിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നു അതിനാൽ അതിന്റെ അർത്ഥമെന്തെന്നാൽ തത്സമയം ക്ലൌഡിന് അധിക സമയം നൽകും അതിനാൽ ക്ലൌഡിന്റെ പരിധി നിങ്ങളോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു ക്ലൌഡിനെ ശരിക്കും ഉപയോഗപ്രദവും ഫലപ്രദവുമാക്കാൻ നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഒരു വശത്ത് നമുക്ക് സെൻസർ നെറ്റ്വർക്കുകൾ ക്ലൌഡ് സുരക്ഷാ വശങ്ങൾ സാമ്പത്തികശാസ്ത്രം തുടങ്ങിയവ വ്യത്യസ്ത മോഡലുകളും വ്യത്യസ്ത തലത്തിലുള്ള പ്രകടനങ്ങളും ഉണ്ട് അതിനാൽ ഈ സെൻസറുകളെ മൊത്തത്തിൽ ഒരു സെൻസർ ക്ലൌഡാക്കി ചിലപ്പോൾ കണ്ടില്ലെന്നു വരാം അതിനാൽ ഒന്നിലധികം കക്ഷികളുള്ള ഒന്നിലധികം വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലുള്ള ഒരു സാധാരണ രംഗം നോക്കിയാൽ ഈ വ്യത്യസ്ത തരം വിഭവങ്ങൾ വ്യത്യസ്ത തരം ഉപകരണങ്ങളാണ് പ്രത്യേകിച്ചും മിക്ക കേസുകളിലും ഈ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു നമ്മൾ സെൽഫോൺ സംവിധാനങ്ങളുണ്ട്

അതിനാൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക സ്ഥലം സന്ദർശിക്കുന്നതിനുള്ള ലളിതമായ ഒരു സാഹചര്യമാണെങ്കിലും വിവിധ തലങ്ങളിൽ നിരവധി തരം സെൻസറുകൾ നിരീക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങൾ ആ തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ കണ്ടതുപോലെ സെൽഫോണിന് കൂട്ടിച്ചേർക്കുന്നതിന് ഇതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് അതിനാൽ വ്യത്യസ്ത തരം ബോഡി പാരാമീറ്ററുകൾ തത്സമയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ചെയ്യുന്നത് തത്സമയ വിവരങ്ങൾ മാത്രമല്ല വിവരങ്ങളുടെ തത്സമയ പ്രോസസ്സിംഗും ആണ് ഒരു നിബന്ധനയുണ്ട് അവിടെ ക്ലൌഡുമായി നൽകുന്ന ചില സെൻസറുകളും ഉണ്ട് മുന്നോട്ടും പിന്നോട്ടും ആ കാരണങ്ങൾ സമന്വയിപ്പിച്ച് ഒരു കോൾ എടുക്കാൻ ശ്രമിക്കുക സമന്വയിപ്പിക്കേണ്ട വ്യത്യസ്ത വൈവിധ്യമാർന്ന സെൻസർ വിവരങ്ങളാണിവ അതിനാൽ സങ്കീർണ്ണമായ ജോലികൾ നിർവഹിക്കുന്നതിന് വർക്ക്ഫ്ലോകളുടെ ക്ലൌഡിൽ നിന്നുള്ള വിവിധതരം വൈവിധ്യമാർന്ന ഡാറ്റകൾക്കിടയിൽ പരസ്പരം പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് നമ്മൾ ഒരുമിച്ച് സംയോജിപ്പിക്കുന്നത് അതിനാൽ സെൻസർ ക്ലൌഡ് തിരിച്ചറിയുന്നതിനോ അടിസ്ഥാനപരമായി പിന്തുണയ്ക്കുന്നതിനോ ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകളുടെ സംയോജനമാണ് അതിനാൽ ഇത് വലിയ തോതിലുള്ള സെൻസർ നെറ്റ്വർക്കുകളെ നൽകുന്നതിനുമാണ് അതിനാൽ ഡാറ്റ പുനസ്ഥാപിക്കുന്നതിനായി ഡാറ്റ ശേഖരണം മുതൽ തീരുമാനം എടുക്കുന്ന സംവിധാനത്തിലേക്ക് സമ്പൂർണ്ണ സെൻസർ ഡാറ്റ ജീവിതചക്രത്തെ പിന്തുണയ്ക്കുന്ന ആപ്ലിക്കേഷനുകളിൽ നിന്ന് ധാരാളം ശേഖരിക്കാനും തിരയാനും ആർക്കൈവുകൾ വിഭവങ്ങൾ പങ്കിടാൻ അനുവദിക്കുന്നു അതിനാൽ ഇവ സേവനങ്ങളുടെ സംവേദനം പ്രോസസ്സിംഗ് പ്രവർത്തിക്കൽ എന്നിവയാണ് ആവശ്യാനുസരണം ഒന്നിലധികം ഉപയോക്താക്കൾ ഒരേസമയം ജോലിചെയ്യുന്നതിന് ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിന് വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ വ്യാപിക്കാൻ സെൻസർ ക്ലൌഡ് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ പ്രാപ്തമാക്കുന്നു അതിനാൽ നിങ്ങൾക്കത് കാണാൻ കഴിയുമെങ്കിൽ നമ്മൾ ഉള്ള സെൻസിംഗ് സാങ്കേതികവിദ്യയിൽ നിന്ന് നമ്മൾ സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സെൻസർ ക്ലൌഡിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ മികച്ച സവിശേഷതകൾ അല്ലെങ്കിൽ ഈ ക്ലൌഡിന്റെ നല്ല ഉപയോഗം ഈ മൊത്തത്തിലുള്ള സെൻസർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഒരു വശത്ത് സെൻസർ നെറ്റ്വർക്കായ കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള അവലോകനം നിങ്ങൾക്ക് നേടാനാകും ഒരു സെൻസർ നെറ്റ്വർക്ക് പ്രോക്സി വിവിധതരം കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്ന സെൻസറുകളുടെ ഒരു ശൃംഖലയുണ്ട് അതിനാൽ സെൻസർ ക്ലൌഡ് പ്രോക്സി പരിവർത്തനം കൈകാര്യം ചെയ്യുന്നു സെൻസർ നെറ്റ്വർക്ക് പ്രോക്സി ക്ലൌഡിലേക്ക് വ്യത്യസ്ത കണക്ഷനുകളില്ലാത്ത സെൻസർ ഉറവിടങ്ങൾ ഒരു പ്രോക്സി ആയി പ്രവർത്തിക്കുന്നു അതിനാൽ എല്ലാ സെൻസർ നെറ്റ്വർക്കുകൾക്കും ക്ലൌഡിലേക്ക് ആ കണക്ഷൻ ഉണ്ടെന്നും ക്ലൌഡിലേക്ക് ഇന്റർഫേസ് ചെയ്യാനാകുമെന്നും പ്രതീക്ഷിക്കാനാവില്ല അതിനാൽത്തന്നെ ക്ലൌഡിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ഒരു പ്രോക്സി നമ്മുടെ പക്കലുണ്ട് അതിന് പലതരം ഉപയോഗങ്ങൾ ഉണ്ട് അതിലൊന്ന് ട്രാഫിക്കാണ് വലിയ നഗരങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ വിന്യസിക്കുന്ന ട്രാഫിക് ഫ്ലോ സെൻസറുകൾ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇവ ട്രാഫിക് ലൈറ്റ് സിസ്റ്റങ്ങളിലോ ചെയ്യാൻ കഴിയും കൂടാതെ ഒരു ഡ്രൈവർക്ക് തന്റെ റൂട്ട് ആസൂത്രണത്തിനായി ഈ ഡാറ്റ തൽസമയം ആയി ഉപയോഗിക്കാൻ കഴിയും ട്രാഫിക് ഫ്ലോ സെൻസറുകൾ കുറഞ്ഞ ചെലവിലുള്ള ഈർപ്പം താപനില സെൻസർ എന്നിവ ഉപയോഗിച്ച് സംയോജിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വിവരങ്ങളുടെ സംയോജനവും സെൻസർ കാര്യങ്ങളിൽ നിന്ന് കിട്ടും ഈ സെൻസറുകൾക്ക് താപനില ഹീറ്റ് ഇൻഡക്സ് എന്നീ വിവരങ്ങൾ നൽകാനും കഴിയും അതിനാൽ മറ്റ് മാർഗങ്ങളിൽ നിശ്ചിത എണ്ണം സെൻസറുകളുള്ള മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയും ഇത് പിന്തുണയ്ക്കുന്നു അതിനാൽ എനിക്ക് പരുക്കൻ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എനിക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ സെൻസർ ഉണ്ട് അത് കൂടുതൽ കൃത്യത നിലനിർത്തുന്നു ഒപ്പം വിളക്ക് പോസ്റ്റിലും ട്രാഫിക് സിഗ്നലിലും ലൈറ്റുകളിലും ഉള്ള ഈ പ്രാദേശിക സെൻസറുകൾ എനിക്ക് ഉണ്ട് അത് എനിക്ക് അവിടത്തെ താപനിലയുടെ കൂടുതൽ തത്സമയ രംഗം നൽകുന്നു അതിനാൽ ചെറിയ വർദ്ധനവുമൊത്തുള്ള സമാന തരം ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മറ്റൊരു വ്യത്യസ്ത വിവരങ്ങളുണ്ടാക്കാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ ഇവയെ വിവിധ തരം കാര്യങ്ങളിലേക്ക് വിർച്വലൈസ് ചെയ്തതായി കാണാൻ കഴിയും മെട്രോളജിക്കൽ വകുപ്പ് അത്തരം കാര്യങ്ങൾക്കായി തിരയുന്നു ട്രാഫിക് മാനേജുമെന്റ് വകുപ്പ് മൊത്തത്തിലുള്ള ട്രാഫിക് മാനേജിംഗ് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നു ഡ്രൈവർമാർ ഈ വിവരങ്ങൾ യാത്ര ആസൂത്രണത്തിനായി ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാം അതിനാൽ സെൻസർ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ചുള്ള ഒരു അവലോകനം നമുക്ക് കാണാൻ കഴിയും അത് നോക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് മാർഗ്ഗമുണ്ട് ഡാറ്റാ പ്രോസസ്സിംഗ് റൂട്ടിംഗ് പവർ മാനേജുമെന്റ് ക്ലോക്ക് സിൻക്രൊണൈസേഷൻ പ്രാദേശികവൽക്കരിച്ച തെറ്റ് കണ്ടെത്തൽ അവ ഇവിടെ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഫിസിക്കൽ സെൻസറുകളാണ് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വെർച്വലൈസ്ഡ് രംഗം അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ ഉള്ളതാണ് ക്ലൌഡിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വെർച്വലൈസ്ഡ് രംഗം വ്യത്യസ്ത തരത്തിലുള്ള ഉപയോക്തൃ സംബന്ധിയായ പ്രശ്നങ്ങൾ നോക്കാൻ എന്നെ സഹായിക്കുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ വിർച്വൽ സെൻസറുകളോ വെർച്വൽ സെൻസർ ഗ്രൂപ്പുകളോ സജ്ജമാക്കിയിട്ടുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നതുപോലുള്ള വിവിധ തരം ആപ്ലിക്കേഷനുകൾക്ക് ഉത്തരം നൽകാം അത് മെഡിക്കൽ തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാകാം അല്ലെങ്കിൽ ട്രാഫിക് തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാകാം അല്ലെങ്കിൽ ആക്ഷൻ മാനേജുമെന്റ് തരത്തിലുള്ള കാര്യങ്ങളും ഒരുപക്ഷേ ആ ലൈറ്റനിംഗ് എങ്ങനെയാണെന്നോ ആ പ്രത്യേക സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എങ്ങനെയെന്നോ പോലുള്ള മറ്റ് പ്രതിഭാസങ്ങളെ മൊത്തത്തിൽ നോക്കുന്നു അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ഫിസിക്കൽ സെൻസറിന്റെ അനുകരണമാണ് അത് വിർച്വൽ മെഷീനുകൾ മുതലായവ കണ്ടതുപോലെ ഫിസിക്കൽ സെൻസറിൽ നിന്ന് അതിന്റെ ഡാറ്റ നേടുന്നു അതിനാൽ ഇത് അടിവരയിടുന്ന ഫിസിക്കൽ മെഷീനുകളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് നമ്മുടെ ക്ലൌഡിൽ നമ്മൾ ഇതിനകം കണ്ടതിന് സമാനമാണിത് അതിനാൽ ഫിസിക്കൽ സെൻസറുകളെയും നിലവിൽ ഫിസിക്കൽ സെൻസറുകൾ കൈവശമുള്ള ഉപയോക്താക്കളെയും കുറിച്ചുള്ള മെറ്റാഡാറ്റ വെർച്വൽ സെൻസറുകളിൽ അടങ്ങിയിരിക്കുന്നു നമുക്ക് ഒരു വെർച്വൽ സെൻസർ ലെയർ ഉണ്ട് ഈ വെർച്വൽ സെൻസറുകളെ നമ്മൾ അനുകരിക്കുന്ന ഫിസിക്കൽ സെൻസറുകളുണ്ട് വ്യത്യസ്ത വെർച്വൽ സെൻസർ ഗ്രൂപ്പുകളുണ്ട് ഒരു ഫിസിക്കൽ സെൻസർ ഫിസിക്കൽ സെൻസറുകളിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടാകാം അതിനാൽ ഒന്നിൽ നിന്ന് പലതിലേക്ക് പലതിൽ നിന്ന് ഒന്നിലേക്ക് പലതിൽ നിന്ന് പലതിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനിടയുണ്ട് അതിനാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സെൻസർ ക്ലൌഡ് അഡ്മിൻ ഉണ്ട് വ്യത്യസ്ത ഫിസിക്കൽ സെൻസറുകളുള്ള ഒരു സെൻസർ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇത് ഫിസിക്കൽ സെൻസറുകളിൽ നിന്ന് വരുന്ന ഫിസിക്കൽ വെർച്വൽ സെൻസറുകളെ അടിവരയിടുന്ന വെർച്വൽ സെൻസർ ഗ്രൂപ്പുകളുണ്ട് തുടർന്ന് ആപ്ലിക്കേഷനുകളിലേക്ക് കൂടുതൽ ചായ്വുള്ള കൂടുതൽ ഉപയോക്താക്കളെ തിരയുന്ന അന്തിമ ഉപയോക്താക്കളുണ്ട് അവർ ഈ സെൻസിംഗ് നെറ്റ്വർക്കുമായി സംസാരിക്കുന്ന അപ്ലിക്കേഷനുകളെക്കുറിച്ച് ആശങ്കാകുലരാണ് അതിനാൽ ഇൻഫ്രാസ്ട്രക്ചർ കൈകാര്യം ചെയ്യുന്നതിന് ഫിസിക്കൽ സെൻസറുകൾ മാനേജുമെന്റ് പോലെ ഈ സെൻസർ ക്ലൌഡിന്റെ ഒരു മാനേജുമെന്റ് ഉണ്ട് ഇത് സെൻസറുകൾക്ക് സംഭവിക്കാം കാരണം ഈ സെൻസറുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത തരം നിയന്ത്രിക്കാൻ കുറഞ്ഞ ശേഷിയുള്ളവയാണ് അതിനാൽ സെൻസറുകൾ വരാം അല്ലെങ്കിൽ താഴേക്ക് പോകാം അതിനാൽ ഈ സെൻസർ ക്ലൌഡ് ഉചിതമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ക്ലയന്റ് പോർട്ടലിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു പ്രൊവിഷനിംഗ് റിസോഴ്സ് മാനേജ്മെൻറ് മോണിറ്ററിംഗ് വെർച്വൽ സെൻസർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ സെൻസർ ഗ്രൂപ്പ് ആണ് ഈ മൊത്തത്തിലുള്ള വാസ്തുവിദ്യയെ മറ്റൊരു തരത്തിൽ നോക്കിയാൽ അത് ഒരു പ്രത്യേക പോർട്ടൽ സെർവറിനായുള്ള ക്ലയന്റ് അഭ്യർത്ഥനയാണ് അത് ആ പ്രക്രിയയ്ക്കായി പോകുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന വ്യത്യസ്ത വിർച്വൽ സെൻസറുകൾക്കായി തിരയുന്നു കൂടാതെ ഫിസിക്കൽ സെൻസറുകൾക്കായും തിരയുന്നു അതിനാൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ വിർച്വൽ സെൻസർ കോൺഫിഗറേഷനുകൾ ഉണ്ട് അത് ഒന്നിൽ നിന്ന് പലതിലേക്കും പലതിൽ നിന്ന് ഒന്നിലേക്കും പലതിൽ നിന്ന് പലതിലേക്കും അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞതുമാവാം അതിനാൽ നമുക്ക് പലതിൽ നിന്നും പലതിലേക്കും ഒന്നിൽനിന്ന് പലതിലേക്കും അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞതുമായ തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ട് അതിനാൽ ഒന്നിൽ നിന്ന് പലത് എന്ന കോൺഫിഗറേഷന്റെ കാര്യത്തിൽ വിർച്വൽ ഇമേജുകളിൽ വ്യക്തിഗത സെൻസറുകൾ ഉണ്ടെങ്കിലും നിരവധി വിർച്വൽ സെൻസറുകളുമായി യോജിക്കുന്ന ഒരു ഫിസിക്കൽ സെൻസർ ഉണ്ട് ഫിസിക്കൽ സെൻസർ ആക്സസ്സുചെയ്യുന്ന എല്ലാ വെർച്വൽ സെൻസറുകളിലും പങ്കിടുന്നു ഫിസിക്കൽ സെൻസറിന്റെ സാമ്പിൾ ദൈർഘ്യവും ആവൃത്തിയും എല്ലാ ഉപയോക്താക്കളെയും അവയുടെ ദൈർഘ്യത്തെയും കണക്കിലെടുത്ത് മിഡിൽവെയർ കണ്ടുപിടിക്കുന്നു അടിസ്ഥാനപരമായി ഈ മിഡിൽവെയറും മറ്റും ഉപയോഗിച്ച് സമന്വയം ഉറപ്പാക്കുന്നു അതിനാൽ ഒന്നിലധികം വെർച്വൽ സെൻസറുകളുമായി യോജിക്കുന്ന ഒരു ഫിസിക്കൽ സെൻസർ ഉള്ളപ്പോൾ അത് പലതിൽ നിന്ന് ഒന്നിലേക്ക് എന്ന കോൺഫിഗറേഷനാണ് ഈ കോൺഫിഗറേഷനിൽ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശത്തെ പല പ്രദേശങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഒപ്പം ഓരോ പ്രദേശത്തിനും ഒന്നോ അതിലധികമോ ഫിസിക്കൽ സെൻസറും സെൻസറി നെറ്റ്വർക്കും ഉണ്ട് ഒരു ഉപയോക്താവിന് ഒരു പ്രദേശത്ത് നിന്നുള്ള നിർദ്ദിഷ്ട പ്രതിഭാസങ്ങളുടെ മൊത്തം ഡാറ്റ ആവശ്യമായി വരുമ്പോൾ അനുയോജ്യമായ എല്ലാ ഡബ്ല്യുഎസ്എൻ കളോ മൂല്യ സെൻസറി നെറ്റ്വർക്കുകളോ അതത് പ്രതിഭാസങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കി ഉപയോക്താവിന് മൊത്തം ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ ഇടമുണ്ടെങ്കിൽ അത് വിവിധ പ്രദേശങ്ങളായി വിഭജിക്കപ്പെടും ഓരോന്നിനും അതിന്റേതായ വയർലെസ് സെൻസർ നെറ്റ്വർക്കുകളുണ്ട് കൂടാതെ ഒരു സംയോജിത പ്രോസസ്സിംഗ് ആവശ്യമാണെങ്കിൽ ഇവ സ്വിച്ച് ഓൺ ചെയ്യുകയും കാര്യങ്ങളെക്കുറിച്ച് ഒരു സമഗ്ര വീക്ഷണം നൽകുകയും ചെയ്യുന്നു അതിനാൽ പലതിൽ നിന്ന് ഒന്നിലേക്ക് എന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് പലതിൽ നിന്ന് ഒന്നിലേക്ക് എന്ന കോൺഫിഗറേഷൻ ഉണ്ട് ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഒന്നിലധികം ഫിസിക്കൽ സെൻസറുകളുടെ സംയോജനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വെർച്വൽ സെൻസറുകളുടെ വൈവിധ്യമാർന്ന കോൺഫിഗറേഷനെ ഒരു ഡിറൈവ്ഡ് കോൺഫിഗറേഷൻ എന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ പ്രോക്സിമിറ്റി സെൻസർ ലൈറ്റ് സെൻസർ ടെമ്പറേച്ചർ സെൻസർ ഹ്യുമിഡിറ്റി സെൻസർ പോലുള്ള ഡിറൈവ്ഡ് സെൻസറുകളുടെ സംയോജനമായ വെർച്വൽ സെൻസറുകളുണ്ട് ഇവ കോൾ ചെയ്യുന്നതിനായി സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ കോൺഫിഗറേഷൻ മറ്റ് മൂന്ന് കോൺഫിഗറേഷൻ പൊതുവൽക്കരണങ്ങളുടെ ഒരു തലമുറയായി കാണാൻ കഴിയും അടിസ്ഥാനപരമായി മറ്റ് മൂന്ന് കോൺഫിഗറേഷനുകളുടെ പൊതുവൽക്കരണം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഫിസിക്കൽ സെൻസറിന്റെ തരത്തിലാണ് ഇത് മറ്റ് ഫിസിക്കൽ സെൻസറുകളിലേക്ക് നോക്കുന്ന സെൻസറുകളെ അനുകരിക്കുന്നു അതിനാൽ മറ്റ് ഫിസിക്കൽ സെൻസറുകളിൽ നിന്ന് ഇത് ഒരു സെൻസിംഗ് കഴിവ് നേടി അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകരിക്കപ്പെടുന്നു അതിനാൽ സങ്കീർണ്ണമായ ഒരു ചോദ്യത്തെ സഹായിക്കാൻ സഹായിക്കുന്ന നിരവധി തരം ഫിസിക്കൽ സെൻസറുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് മൊത്തത്തിലുള്ള പാരിസ്ഥിതിക അവസ്ഥ വന്യജീവി ആവാസ വ്യവസ്ഥയിൽ സുരക്ഷിതമാണോ ഇത് വളരെ സങ്കീർണ്ണമായ ചോദ്യമാണ് മൊത്തത്തിലുള്ള അവസ്ഥയെന്താണ് വന്യജീവി ആവാസ വ്യവസ്ഥയുടെ സുരക്ഷയെന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന് ഒരു നിർവചനം ഉണ്ടായിരിക്കണം ഇത് അറിയേണ്ടതുണ്ട് അതിനാൽ ഫിസിക്കൽ സെൻസറുകളിൽ നിന്നുള്ള നിരവധി പാരിസ്ഥിതിക അവസ്ഥകളുടെ മൂല്യങ്ങൾ വെച്ച് സുരക്ഷാ ലെവൽ മൂല്യങ്ങൾ കണക്കുകൂട്ടുന്നതിനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും വെർച്വൽ സെൻസറുകൾക്ക് കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ വ്യാപകമായ ആപ്ലിക്കേഷനുകൾ ഉണ്ട് കൂടാതെ ഒരു ലേയേർഡ് സെൻസർ ക്ലൌഡ് ആർക്കിടെക്ചർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത വയർലെസ് സെൻസർ ദാതാക്കളുണ്ട് അത് ഡാറ്റ വിവരങ്ങളും തരങ്ങളും നൽകുന്നു നമുക്ക് ഒരു സെൻസർ കേന്ദ്രീകൃത മിഡിൽവെയർ ഉണ്ട് അത് ഒരു ഡബ്ല്യുഎസ്എൻ മെയിൻറനൻസ് അല്ലെങ്കിൽ ഡബ്ല്യുഎസ്എൻ രജിസ്ട്രേഷൻ തരത്തിലുള്ള കാര്യങ്ങൾ ആണ് തുടർന്ന് നമുക്ക് മറ്റൊരു മിഡിൽവെയർ ഉണ്ട് അവിടെ വെർച്വൽ സെൻസർ എമുലേറ്റ് ചെയ്യുന്ന വെർച്വൽ സെൻസർ പ്രൊവിഷൻ മാനേജുമെന്റ് ഇമേജ് ലൈഫ് സൈക്കിൾ എന്നിങ്ങനെ പോകുന്നു ഇന്റർഫേസുകൾ അതിനാൽ ഒന്നിലധികം ലെയറുകൾ ഉണ്ട് ഒന്ന് ഫിസിക്കൽ ലെയർ പിന്നെ നമുക്ക് ഈ ഡബ്ല്യുഎസ്എൻ രജിസ്ട്രേഷൻ ഡബ്ല്യുഎസ്എൻ മെയിന്റനൻസ് ഡാറ്റ ശേഖരണ ഭാഗം ഉണ്ട് പിന്നെ വിർച്വലൈസേഷൻ ലെയർ ഉണ്ട് തുടർന്ന് കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ആ ഫിസിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട് തുടർന്ന് നമുക്ക് ഉപയോക്തൃ ശേഖരം ഡാറ്റാ ശേഖരം സെഷൻ മാനേജുമെന്റ് അംഗത്വ മാനേജുമെന്റ് മുതലായവ ഉണ്ട് അതിനാൽ പലതരം കാര്യങ്ങളുണ്ട് നമുക്ക് സെൻസർ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ സംഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ സെൻസറുകളെ വിർച്വലൈസ് ചെയ്യുകയും വിർച്വലൈസ്ഡ് സെൻസറുകൾക്കായി ഒരു മാനേജുമെന്റ് സംവിധാനം നൽകുകയും ചെയ്യാൻ കഴിയും വെർച്വൽ സെൻസറുകളുടെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള സെൻസർ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്ത് ചലനാത്മകമായി ഒരു വെർച്വൽ സെൻസർ ഗ്രൂപ്പ് സൃഷ്ടിക്കാൻ സെൻസർ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ അന്തിമ ഉപയോക്താവിനെ പ്രാപ്തമാക്കുന്നു അതിനാൽ ഉപയോക്തൃ ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ എനിക്ക് ഒരു പ്രത്യേക ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കാം സെൻസർ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ സെൻസർ സിസ്റ്റം മാനേജുമെന്റിലും സെൻസർ ഡാറ്റ മാനേജുമെന്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇത് സെൻസർ ഡാറ്റ മാനേജുമെന്റിനും സെൻസർ സിസ്റ്റം മാനേജുമെന്റിനും കൂടുതൽ ചായ്വുള്ളതോ ലംബമായതോ ആണ് കൂടാതെ ഉപയോക്താവിനും സെൻസർ നെറ്റ്വർക്കിനുമിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഉപയോക്താവിൽ നിന്ന് മാനേജിംഗ് നെറ്റ്വർക്കുകൾ വിന്യസിക്കുന്നതിന്റെ ഭാരം ഏറ്റെടുക്കുകയെന്നതാണ് ലക്ഷ്യം അതായത് വിന്യസിച്ച ഡാറ്റയോ സെൻസിംഗ് പരിതസ്ഥിതിയോ ഉപയോഗിച്ച് ഉപയോക്തൃ അപ്ലിക്കേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഒരു തരമാണിത് അതിനാൽ നമ്മൾ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ആരംഭിച്ച് വിവിധ തരം സെൻസറുകളിലേക്ക് വിവിധ തരം സെൻസറുകളുടെ സർവ്വവ്യാപിയായ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു അവ വ്യത്യസ്ത ഉപയോക്തൃ ആപ്ലിക്കേഷനുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഉപയോഗിക്കാവുന്ന വലിയ അളവിലുള്ള ഡാറ്റ ശേഖരിക്കുന്നു ഒരു വെർച്വലൈസേഷൻ സംവിധാനം പിന്തുണയ്ക്കുകയും ഒരു സെൻസർ ക്ലൌഡ് വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വ്യത്യസ്ത തത്സമയ അപ്ലിക്കേഷനുകളെ അഭിസംബോധന ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വിവിധതരം വൈവിധ്യമാർന്ന സെൻസർ ശേഖരിച്ച അല്ലെങ്കിൽ സെൻസർ സ്വന്തമാക്കിയ ഡാറ്റ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത തത്സമയ അപ്ലിക്കേഷനുകൾ നൽകുന്നതിനോ സഹായിക്കുന്നു